ഒരു സർക്യൂട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകണമെങ്കിൽ അതിലുള്ള ഓപ് ആമ്പ് ന്റെ ചിഹ്നങ്ങൾ എങ്ങനെ നിർണ്ണയിക്കാമെന്ന് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണക്കാക്കിയ സർക്യൂട്ടുകൾക്ക് ഒരു ഓപ് ആമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സർക്യൂട്ടിൽ ഒന്നിലധികം ഓപ് ആമ്പുകൾ ഉള്ളപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അവയിൽ ഒന്നിൻറെയും ചിഹ്നങ്ങൾ നമുക്ക് അറിയില്ല അവ എല്ലാം നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആകണമെങ്കിൽ ഉള്ള ചിഹ്നങ്ങൾ നമ്മൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ഞാൻ ഒരു സർക്യൂട്ട് എടുക്കട്ടെ സർക്യൂട്ട് എന്താണെന്നും സർക്യൂട്ട് വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് സ്വയം നിർണ്ണയിക്കാൻ കഴിയുക എന്നും ഞാൻ ആകുലപ്പെടുന്നില്ല പക്ഷേ ഈ തരത്തിലുള്ള ഒരു സർക്യൂട്ട് ആണ് എനിക്കുള്ളത് സർക്യൂട്ടിന് ഇവിടെ ഇൻപുട്ട് വോൾട്ടേജും അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജും ഉണ്ടായിരിക്കാം പക്ഷേ ചിഹ്നങ്ങൾ നിർണ്ണയിക്കുന്നതിന് ഇവ പ്രസക്തമല്ല ചിഹ്നങ്ങൾ നിർണ്ണയിക്കുമ്പോൾ നമ്മൾ ഇൻപുട്ടുകൾ നിർജ്ജീവമാക്കുമെന്ന് നമുക്കറിയാം ഞാൻ ഇതിനെ OPA1 എന്നും OPA2 എന്നും വിളിക്കട്ടെ ഇപ്പോൾ ഞാൻ ചിട്ടയായ നടപടിക്രമം കാണിച്ചുതരാം നിങ്ങൾക്ക് കുറച്ച് പരിചയം ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് സർക്യൂട്ട് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ തുടക്കത്തിൽ നിങ്ങൾ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് നടപടിക്രമം ഇപ്പോഴും മുമ്പത്തെ പോലെ തന്നെയാണ് നമ്മൾ ഒരു ഓപ് ആമ്പിനെ നീക്കം ചെയ്യുന്നു എന്നിട്ട് ഓപ് ആമ്പിന്റെ ഔട്ട്പുട്ടിന് പകരം ടെസ്റ്റ് വോൾട്ടേജ് കൊടുക്കുന്നു എന്നിട്ട് ഓപ് ആമ്പിന്റെ ഇൻപുട്ട് വശത്തേക്ക് എന്താണ് തിരികെ വരുന്നതെന്ന് നോക്കുന്നു ഇപ്പോൾ ഒന്നിലധികം ഓപ് ആമ്പുകൾ കാരണം നിങ്ങൾക്ക് ഒരു ചെറിയ സങ്കീർണത നേരിടേണ്ടി വന്നേക്കാം മാത്രമല്ല അവയിലൊന്നിന്റെയും ചിഹ്നങ്ങൾ നിങ്ങൾക്കറിയില്ല ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ആദ്യം OPA1 ൻറെ ചിഹ്നം നിർണ്ണയിക്കട്ടെ തുടർന്ന് OPA2 ഈ ക്രമീകരണത്തിന് ഇതിൽ കുറച്ച് സ്വാധീനമുണ്ട് നമുക്ക് അത് പിന്നീട് കാണാം Vi പൂജ്യം ആക്കി സജ്ജീകരിച്ചു അതായത് ഇത് ഗ്രൌണ്ടും ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ OPA1 ൻറെ ചിഹ്നങ്ങൾ ആണ് നിർണ്ണയിക്കുന്നത് അതായത് ഇത് നീക്കം ചെയ്ത് ഞാൻ ഇവിടെ VTEST കൊടുക്കുന്നു ഇവയെ A എന്നും B എന്നും വിളിക്കട്ടെ ഞാൻ അവിടെ VAB നിർണ്ണയിക്കും ഇപ്പോൾ ബാക്കിയുള്ളത് പതിവ് സർക്യൂട്ട് വിശകലനമാണ് മറ്റ് ഓപ് ആമ്പുകളെ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഒരേയൊരു കാര്യം നമുക്ക് മറ്റൊരു ഓപ് ആമ്പും കൂടി ഉണ്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം ഏറ്റവും ലളിതമായ കാര്യം അത് ഇതിനകം തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണെന്ന് അനുമാനിക്കുക എന്നതാണ് ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയില്ല പക്ഷേ അത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഉള്ളത് പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഇതിൻറെ ഇൻപുട്ടുകൾ വെർച്ച്വൽ ഷോർട്ട് ൽ ആണ് എന്നാണ് ഇതിനർത്ഥം അതിനാൽ പൊതുവെ മറ്റെല്ലാ ഓപ് ആമ്പുകളും നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് എന്ന് നിങ്ങൾ അനുമാനിക്കുന്നു അത് അർത്ഥമാക്കുന്നത് അവയ്ക്ക് വെർച്ച്വൽ ഷോർട്ട് ഇൻപുട്ടുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതാണ് ഏറ്റവും ലളിതമായ കാര്യം എന്നാൽ നിങ്ങൾക്ക് എല്ലായിപ്പോഴും ഈ അനുമാനം നടത്താൻ കഴിയില്ലെന്ന് മനസ്സിലാകും പക്ഷേ നിങ്ങൾക്ക് ഈ അനുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കുന്നു കാരണം ഒന്നാമതായി മറ്റ് ഓപ് ആമ്പുകൾക്ക് എന്തെല്ലാം ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല കാരണം അവയുടെ ഇൻപുട്ടുകൾ ഏതെല്ലാം ചിഹ്നങ്ങളിൽ ആണെങ്കിലും അത് വെർച്ച്വലി ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു കാരണം അവ ആത്യന്തികമായി നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കും അതിനാൽ ഇതും പൂജ്യം വോൾട്സ് ൽ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ അനുമാനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പിന്നീട് ചർച്ച ചെയ്യാം എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ അനുമാനം നടത്താൻ കഴിയും ഇപ്പോൾ നമുക്ക് ഈ അനുമാനം നടത്താൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾ ഈ അനുമാനം മുന്നോട്ട് വച്ചാൽ നിങ്ങൾ ഒരു വൈരുദ്ധ്യത്തിലേക്ക് നയിക്കപ്പെടും അതിനാൽ നിങ്ങൾക്ക് ഈ അനുമാനം നടത്താൻ കഴിയുമോ ഇല്ലയോ എന്നത് വസ്തുത പരിശോധിച്ചതിന് ശേഷം എടുക്കേണ്ട തീരുമാനമാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം നമ്മൾ ഇവിടെ VTEST കൊടുത്തിട്ടുണ്ട് ഈ പോയിന്റ് പൂജ്യത്തിൽ ആണ് അതിനാൽ VTESTR4 എന്ന കറണ്ട് ആ വഴിക്ക് പ്രവഹിക്കുന്നു തീർച്ചയായും ഓപ് ആമ്പിൻറെ ഇൻപുട്ടിലേക്ക് ഒന്നും ഒഴുകുന്നില്ല അതിനാൽ അതേ കറണ്ട് R3 ലേക്ക് പ്രവഹിക്കും അതിനാൽ ഈ ദിശയിൽ R3 ൽ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഈ കറണ്ട്×R3 ആണ് അതിനാൽ ഈ പോയിന്റിലെ വോൾട്ടേജ് VTESTR3R4 ആണ് ഇപ്പോൾ ഈ പോയിന്റിനും VAB ക്കും ഇടയിൽ നമുക്ക് R2 ഉം R1 ഉം ഉള്ള ഒരു വോൾട്ടേജ് ഡിവൈഡർ മാത്രമേ ഉള്ളൂ അതിനാൽ ഇവിടെയുള്ള വോൾട്ടേജ് എന്നത് ഇവിടെയുള്ള വോൾട്ടേജുകൾ എന്തുതന്നെ ആയാലും അത് ഗുണനം ഡിവൈഡർ അനുപാതം ആയിരിക്കും അതായത് VTESTR3R4×R1R1R2 ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പരിചയം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് വ്യക്തമായി വിലയിരുത്തേണ്ടതില്ല കാരണം ചിഹ്നം ഇതിനകം നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്കറിയാം പല സർക്യൂട്ടുകളിലും അനുപാതത്തിന്റെ മൂല്യത്തിൽ കാര്യമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ അത് നിർണ്ണയിച്ചു ഈ വോൾട്ടേജ് VAB ആണ് ഞാൻ നേരത്തെ വിവരിച്ച അൽഗോരിതം അനുസരിച്ച് VAB ഇതുപോലെ ഒരു നെഗറ്റീവ് സംഖ്യ × VTEST ആയി മാറുകയാണെങ്കിൽ A എന്നത് ഓപ് ആമ്പിൻറെ പോസിറ്റീവ് ടെർമിനലും B എന്നത് ഓപ് ആമ്പിൻറെ നെഗറ്റീവ് ടെർമിനലും ആയിരിക്കും അത് ഈ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണെന്ന് ഉറപ്പാക്കും ഇപ്പോൾ ഈ ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നിർണ്ണയിച്ചുകഴിഞ്ഞു OPA2 നുള്ള ചിഹ്നങ്ങൾ നമ്മൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ഈ ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ എന്നും എന്നും നിർണയിച്ചു കഴിഞ്ഞു Vi പൂജ്യമാണ് അതായത് ഇത് ഗ്രൌണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഓപ് ആമ്പ് നീക്കം ചെയ്യുകയും അതുപോലെ ഒരു ടെസ്റ്റ് വോൾട്ടേജ് കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ OPA1 ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടത് OPA1 നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കുമെന്ന അതേ അനുമാനം നമുക്ക് പരീക്ഷിക്കാം അതിനാൽ അതിൻറെ ഇൻപുട്ടുകൾ വെർച്വലി ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇത് ഇപ്പോൾ നമ്മെ ഒരു വൈരുദ്ധ്യത്തിലേക്ക് നയിക്കും കാരണം OPA1 ന്റെ ഇൻപുട്ടുകൾ വെർച്വലി ഷോർട്ട് ആണെന്ന് അനുമാനിക്കുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് പൂജ്യം വോൾട്സ്ൽ ആണ് എന്നാണ് എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ട് പൂജ്യം ആണ് ഈ വശത്ത് VTEST ഉണ്ട് മറുവശത്ത് പൂജ്യം വോൾട്സ് ഉണ്ട് അതിനാൽ അവിടെയുള്ള കറണ്ട് VTESTR2 ആണ് എന്നാൽ ഓപ് ആമ്പിലേക്ക് കറണ്ട് ഒന്നും പ്രവഹിക്കുന്നില്ല അതിനാൽ കിർച്ചഹോഫ്സ് കറൻറ് ലോ Kirchhoffs current law ഈ നോഡി ൽ ലംഘിക്കപ്പെട്ടതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ OPA1 നെഗറ്റീവ് ഫീഡ്ബാക്കിലാണെന്നും ഇൻപുട്ടുകൾ വെർച്വലി ഷോർട്ട് ആണെന്നും ഊഹിക്കാൻ കഴിയില്ല അതിനാൽ നമ്മൾ മറ്റൊരു സമീപനം പരീക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഓപ് ആമ്പ് ഉപയോഗിച്ച് സർക്യൂട്ട് പൂർണ്ണമായിരിക്കുമ്പോൾ അത് നെഗറ്റീവ് ഫീഡ്ബാക്കിലായിരിക്കും മാത്രമല്ല ഇൻപുട്ടുകൾ വെർച്വലി ഷോർട്ടും ആയിരിക്കും എന്നാൽ OPA2 നീക്കം ചെയ്ത് നിങ്ങൾ VTEST ഉപയോഗിച്ച് അത് മാറ്റിസ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അനുമാനം ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ OPA1 നെ പരിമിതമായ ഗെയിൻ ഉള്ള വോൾട്ടേജിനാൽ അനിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടം ഉപയോഗിച്ച് മാതൃകയാക്കണം അതിനാൽ പകരം നമുക്ക് അത് ചെയ്യാം OPA1 ൻറെ ഇൻപുട്ടുകൾ വെർച്വലി ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല അതിനാൽ പകരം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇതാണ് ഓപ് ആമ്പിൻറെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുകൾ എന്ന് നമുക്ക് അറിയാം അതിനാൽ ഇത് A0×Vd ആയിരിക്കും ഇപ്പോൾ ഇത് OPA1 ന്റെ ഒരു മാതൃക മാത്രമാണ് OPA1 സർക്യൂട്ടിൽ ഉണ്ട് OPA2 നീക്കം ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ VTEST കൊടുക്കും ഇത്തവണ OPA1 ന്റെ ഇൻപുട്ട് ടെർമിനലുകൾ വെർച്വലി ഷോർട്ട് ആണെന്ന അനുമാനം ഞാൻ എടുക്കില്ല ഞാൻ അവിടെ ഉള്ളത് എന്താണോ അത് കണക്കാക്കുന്നു Vi പതിവുപോലെ പൂജ്യമായി സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ ഇവിടെ VTEST കൊടുക്കുന്നു എനിക്ക് ഒരു വോൾട്ടേജ് ഡിവൈഡർ R2 ഉം R1 ഉം ഉണ്ട് അതിനാൽ ഈ പോയിന്റിലെ വോൾട്ടേജ് VTEST×R1R1R2 ആണ് അതിനാൽ ഇവിടെയുള്ള വോൾട്ടേജ് Vd×A0 ആണ് അതിനാൽ ഇത് A0R1R1R2×VTEST ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് VTEST ഉണ്ട് അവിടെ നമുക്ക് ഈ വോൾട്ടേജ് ഉണ്ട് ഇത് ഈ വോൾട്ടേജിന്റെയും ആ വോൾട്ടേജിന്റെയും ലീനിയർ സംയുക്തം ഉപയോഗിച്ച് കണക്കാക്കാം അതിനാൽ പൊതുവേ നിങ്ങൾക്ക് രണ്ട് റെസിസ്റ്ററുകൾ ഉള്ള ഇത്തരമൊരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കറണ്ട് പ്രവഹിക്കുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് ഒന്നും പുറത്തേക്ക് പ്രവഹിക്കുന്നില്ല എന്ന് ഓർക്കുക എനിക്ക് ഇവിടെ VA ഉം ഇവിടെ R3 ഉം R4 ഉം VB ഉം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വയം തെളിയിക്കാനാകും അതായത് അതിൻറെ ഫലങ്ങൾ ഞാൻ തന്നെ എഴുതാം ഈ വോൾട്ടേജ് VA×R4VB×R3R4R3 ആയിരിക്കും ചില പ്രവർത്തന ചോദ്യങ്ങളിലോ അസൈൻമെന്റ് ചോദ്യത്തിലോ ഇതുപോലെയുള്ള ഒരു ഫലം നിങ്ങൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതിനാൽ ഇപ്പോൾ എന്റെ കാര്യത്തിൽ VA എന്നത് ഈ VTEST ആണ് VB എന്നത് ഇതു മുഴുവനും ആണ് അതായത് A0R1R1R2×VTEST A ഉം B ഉം ഓപ് ആമ്പ് OPA2 ന്റെ ഇൻപുട്ടുകളാണ് എന്ന് അടയാളപ്പെടുത്തട്ടെ അതിനാൽ ഈ പോയിൻറ്ലെ വോൾട്ടേജ് VAB എന്നത് VTEST×R4R3R4A0×VTESTR1R1R2R3R3R4 ആയിരിക്കും അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ചില അനുഭവജ്ഞാനം ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് എഴുതാനുള്ള സമയം ലഭിക്കില്ല ഇവിടെ VTEST ന്റെ ഗുണകം പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ട പ്രധാന കാര്യം അതിനാൽ ഇത് പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ A ഇൻവെർട്ടിംഗ് ടെർമിനൽ ആയിരിക്കണമെന്നും B എന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയിരിക്കണമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിനാൽ ഇപ്പോൾ OPA1 ന് അത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉണ്ട് OPA2 ന് അത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉണ്ട് അതിനാൽ ഇതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ ഇവയാണ് നിങ്ങൾക്ക് എല്ലാ ഓപ് ആമ്പുകളുടെയും ചിഹ്നങ്ങൾ വ്യവസ്ഥാപിതമായി അവയിൽ ഓരോന്നിലൂടെയും കടന്നുപോകുന്നതിലൂടെ കണ്ടെത്താനാകും ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം സംഭവിക്കുന്നത് നിങ്ങൾ ഇത് ശരിയായി പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നിരവധി ഓപ് ആമ്പുകളോ മറ്റേതെങ്കിലും ഘട്ടങ്ങളോ ഉപയോഗിച്ച് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് സാധുവാകുന്ന തരത്തിൽ ചിഹ്നങ്ങൾ നിശ്ചയിക്കും എന്നതാണ് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ് ആമ്പുകളുടെ എല്ലാ നല്ല സവിശേഷതകളും അതായത് വെർച്വലി ഷോർട്ട് ചെയ്യപ്പെട്ട ഇൻപുട്ടുകൾ പോലുള്ളവ ഓപ് ആമ്പുകൾ ഓരോന്നും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണെങ്കിൽ മാത്രമേ സാധുവാകുകയുള്ളൂ അത് ശരിക്കും ആ അവസ്ഥയിൽ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അതായത് ഒരു ഫീഡ്ബാക്ക് നെഗറ്റീവ് ആകണമെങ്കിൽ അത് ഏത് ടെർമിനലിലേക്ക് ആണോ വരുന്നത് അത് നെഗറ്റീവ് ആയിരിക്കണമെന്ന് പക്ഷേ OPA1 ന്റെ കാര്യം തീർച്ചയായും അങ്ങനെയല്ല അത് ഈ ഘട്ടത്തിലൂടെ കടന്നുപോകുകയും പോസിറ്റീവ് ടെർമിനലിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഫീഡ്ബാക്ക് പോസിറ്റീവ് ടെർമിനലിലേക്ക് മടങ്ങിവരുമ്പോൾ OPA1 നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് അതേസമയം OPA2 ൽ സിഗ്നൽ പുറത്തേക്ക് പോയി തിരികെ വരുന്നത് അതിൻറെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ആണ് അത് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് അതിനാൽ ഒടുവിൽ രണ്ടിൽ ഏത് വഴിയും സാധ്യമാണ് ഈ രണ്ട് ഓപ് ആമ്പുകളും നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് ഒരു പരിശീലനം എന്ന നിലയിൽ നിങ്ങൾക്ക് Vi ഇവിടെ കൊടുത്ത് V0 ന്റെ മൂല്യം നിർണ്ണയിക്കാം ഇപ്പോൾ ഉത്തമമായ ഓപ് ആമ്പുകൾക്ക് ഇൻപുട്ടുകൾ വെർച്വലി ഷോർട്ട് ആണ് എന്ന് അനുമാനിക്കാം കാരണം ഓപ് ആമ്പുകൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ നിർണ്ണയിച്ചിട്ടുണ്ട് അതിനാൽ പൊതുവായ അൽഗോരിതം ഇപ്രകാരമാണ് നിങ്ങൾ ഓപ് ആമ്പുകൾ ഓരോന്നായി നീക്കം ചെയ്യുകയും ഓപ് ആമ്പുകളുടെ ഔട്ട്പുട്ടിനെ വോൾട്ടേജ് ഉറവിടങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ആ ഓപ് ആമ്പിന്റെ ഇൻപുട്ടുകളിലേക്ക് തിരികെ വരുന്ന വോൾട്ടേജിന്റെ ധ്രുവത കാണുകയും ചെയ്യുക ഇപ്പോൾ ആ കണക്കുകൂട്ടൽ നടത്തുമ്പോൾ സർക്യൂട്ടിലെ ബാക്കിയുള്ള ഓപ് ആമ്പുകളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം മറ്റെല്ലാ ഓപ് ആമ്പുകളും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണെന്ന് അനുമാനിക്കുന്നതാണ് ഏറ്റവും ലളിതം അതിനാൽ അവയുടെ ഇൻപുട്ടുകൾ വെർച്വലി ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുമാനിക്കാൻ കഴിയില്ല കാരണം അത് ഒരു വൈരുദ്ധ്യത്തിലേക്ക് നയിക്കും അതായത് കിർച്ചഹോഫ്സ് ലോ ലംഘിക്കപ്പെടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്യൂട്ട് നിയമം ലംഘിക്കപ്പെടും അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓപ് ആമ്പുകളെ ഒരു വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം ഉപയോഗിച്ച് മാതൃകയാക്കേണ്ടതുണ്ട് ഇത് പരിമിതമായ ഗെയിൻ ഉള്ള ഓപ് ആമ്പിന്റെ മാതൃകയാണ് തുടർന്ന് നിങ്ങൾ വിശകലനവുമായി മുന്നോട്ട് പോകുക അവസാനമായി ചിലപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് കണ്ടുപിടിക്കേണ്ട രീതി അവലംബിക്കേണ്ടി വന്നേക്കാം കാരണം നിങ്ങൾ വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്ന ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല അതിനാൽ നിങ്ങൾ രണ്ട് ചിഹ്നങ്ങളും പരിഗണിച്ച് മുന്നോട്ട് പോകണം പക്ഷേ ഒടുവിൽ ഈ സർക്യൂട്ടിന് വ്യത്യസ്തമായ സാധ്യതകൾ ഉണ്ടാകാൻ കഴിയാത്ത ഒരു അദ്വിതീയ പരിഹാരം ഉണ്ടാകും ഉദാഹരണത്തിന് ഇതാണ് ഒരേയൊരു സാധ്യത അതിനാൽ നിങ്ങൾ രണ്ട് ഓപ് ആമ്പുകളുടെയും ചിഹ്നങ്ങൾ നേർവിപരീതമാക്കുകയാണെങ്കിൽ ഒപ് ആമ്പുകളിൽ ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ അതാണ് ചുരുക്കത്തിൽ അൽഗോരിതം ഒന്നിലധികം ഓപ് ആമ്പുകളുള്ള ഏത് സർക്യൂട്ടിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം